ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ ജീവിത ചക്ര മാതൃക കളെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ വാട്ടർഫാൾ മോഡൽ ഒരു അവബോധജന്യവും പ്രധാനപ്പെട്ടതുമായ മാതൃകകളാണെന്നും നിരവധി മാതൃകകൾ വാട്ടർഫാൾ മോഡലിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു വാട്ടർഫാൾന്റെ മാതൃകയിൽ നിന്നുള്ള ചില ഡെറിവേറ്റീവുകൾ നമ്മൾ പരിശോധിച്ചു ഇന്നത്തെ പ്രഭാഷണത്തിൽ ആദ്യം വാട്ടർഫാൾ മാതൃകകൾ എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് അവയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അവയെക്കുറിച്ചുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് കൂടാതെ വാട്ടർഫാൾ മാതൃകയുടെ നിർദ്ദിഷ്ട പോരായ്മകൾ മറികടക്കുന്ന മറ്റ് മാതൃകകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും വാട്ടർഫാൾന്റെ മാതൃകയുടെ ചില പോരായ്മകൾ ഉണ്ട് കാരണം അവ 30 40 വർഷം മുമ്പുള്ളതുപോലെ ജനപ്രിയമല്ല നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പ്രോജക്ടിന്റെ തരം 30 40 വർഷം മുമ്പ് കൈകാര്യം ചെയ്ത പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ പ്രോജക്റ്റുകൾ ഹ്രസ്വമാണ് കോഡ് ആദ്യം മുതൽ എഴുതുന്നില്ല കാരണം ധാരാളം കോഡ് ലഭ്യമാണ് ധാരാളം കോഡ് വീണ്ടും ഉപയോഗിക്കുന്നു കൂടാതെ ചെറിയ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും മാത്രമേ നമ്മൾ സേവനാധിഷ്ഠിത സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നുള്ളൂ അതിനാൽ ഇന്ന് നമ്മൾ ആദ്യം വാട്ടർഫാൾ അടിസ്ഥാനമാക്കിയുള്ള മാതൃക കളെക്കുറിച്ചും ഗുണങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ചും ഉള്ള ചില പ്രതിഫലനങ്ങൾ പരിശോധിക്കാം വാട്ടർഫാൾ മോഡൽ കൂടാതെ നിർദ്ദിഷ്ട പോരായ്മകൾ മറികടക്കാൻ നിർദ്ദേശിച്ച മാതൃകകൾ നമ്മൾ കാണും വാട്ടർഫാൾ അടിസ്ഥാനമാക്കിയുള്ള മാതൃകകൾ വർദ്ധിച്ചുവരുന്ന റാഡ് എവൊല്യൂഷണറി മാതൃക എന്നിവ നമ്മൾ നോക്കുന്നു ആദ്യം നമുക്ക് വാട്ടർഫാൾ അടിസ്ഥാനമാക്കിയുള്ള മാതൃകകളുടെ പ്രധാന ബുദ്ധിമുട്ടുകൾ നോക്കാം വാട്ടർഫാൾ മാതൃകയിൽ മാറ്റ അഭ്യർത്ഥനകൾ കൈകാര്യം ചെയ്യാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എല്ലാ വെള്ളച്ചാട്ടത്തെ അടിസ്ഥാനമാക്കിയുള്ള മാതൃകകളായ ആവർത്തന വാട്ടർഫാൾ മോഡൽ പ്രാചീന വാട്ടർഫാൾ മോഡൽ പ്രോട്ടോടൈപ്പിംഗ് മാതൃക വി മാതൃക തുടങ്ങിയവ ആവശ്യകതകൾ മുൻകൂട്ടി ശേഖരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് മാറില്ലെന്ന് അനുമാനിക്കുകയും ഈ പ്രമാണം ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നത് ഈ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്യുകയും തുടർന്ന് കോഡിംഗ് ടെസ്റ്റിംഗ് എന്നിവ ഈ ആവശ്യകതകൾക്കൊപ്പം നടത്തുകയും ചെയ്യുന്നു എന്നാൽ വാസ്തവത്തിൽ ഇന്നത്തെ പ്രോജക്ടുകൾ വികസനം മുന്നോട്ട് പോകുമ്പോൾ ആവശ്യകതകൾ മാറിക്കൊണ്ടിരിക്കും പ്രാരംഭ ആവശ്യകതയ്ക്ക് ശേഷം സാധാരണയായി 40 മുതൽ 50 ശതമാനം വരെ ആവശ്യകതകൾ മാറുന്നു വാട്ടർഫാൾ അടിസ്ഥാനമാക്കിയുള്ള മാതൃകക്ക് പ്രധാന പോരായ്മയിൽ ഒന്നാണിത് ഒരു സാധാരണ വികസന സമയത്ത് ആവശ്യകതയുടെ 40 ശതമാനം മാറ്റം രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ പല പ്രോജക്റ്റുകളും ആപ്ലിക്കേഷനുകൾ ഇച്ഛാനുസൃതമാക്കുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് സേവനാധിഷ്ഠിത സോഫ്റ്റ്വെയറിനെക്കുറിച്ചാണ് അവിടെ ഓർഗനൈസേഷന് ചില സോഫ്റ്റ്വെയറുകൾ ഉണ്ട് മറ്റൊരു ഉപഭോക്താവിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്കായി അത് തയ്യാറാക്കുന്നത് ഈ ഇഷ്ടാനുസൃത അപ്ലിക്കേഷനുകൾക്കായി നമ്മൾ വാട്ടർഫാൾ മോഡൽ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ ചിലവ് ഉണ്ടാകും കാരണം മുഴുവൻ കാര്യങ്ങളും പ്രമാണവും ചെയ്യേണ്ടതുണ്ട് സവിശേഷത തയ്യാറാക്കിയിരിക്കണം രൂപകൽപ്പന ചെയ്യണം മൂന്നാമത്തെ പ്രശ്നം വാട്ടർഫാൾ മാതൃകയെ ഹെവി വെയ്റ്റ് പ്രോസസ് എന്ന് വിളിക്കുന്നു ഇതിനെ ഹെവി വെയ്റ്റ് പ്രോസസ് എന്ന് വിളിക്കുന്നതിനു കാരണം ഈ പ്രക്രിയയുടെ ഭാഗമായി ധാരാളം പ്രമാണങ്ങൾ നിർമ്മിക്കപ്പെടുന്നു എല്ലാം പ്രമാണം ചെയ്യണം ആവശ്യകത സവിശേഷത അവലോകനങ്ങൾ അവലോകന ഫലങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന വിവിധതരം പദ്ധതികൾ എന്നിവയിൽ നിന്ന് എല്ലാം രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനാലാണ് ഇവയെ ഹെവി വെയ്റ്റ് പ്രോസസ് എന്ന് വിളിക്കുന്നത് ഒരു വികസന സംഘത്തിന്റെ ശ്രമത്തിന്റെ 50 ശതമാനം രേഖകൾ സൃഷ്ടിക്കുന്നതിലേക്കാണ് പോകുന്നതെന്നും സ്വാഭാവികമായും പദ്ധതി ചെലവ് വർദ്ധിക്കുകയും പ്രോജക്റ്റ് കാലതാമസമുണ്ടാകുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ പ്രോജക്റ്റ് ദൈർഘ്യം വളരെ ചെറുതായതിനാൽ അത്തരം ഭാരോദ്വഹന പ്രക്രിയകൾ പ്രീതി കണ്ടെത്തുന്നില്ല മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ചില പ്രക്രിയകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് വാട്ടർഫാൾ മാതൃകയിൽ ആവശ്യകതകൾ തുടക്കത്തിൽ തന്നെ നിർണ്ണയിക്കപ്പെടുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അവ ആ സമയം മുതൽ നിശ്ചയിച്ചിട്ടുണ്ട് മാറ്റങ്ങളൊന്നും അനുവദനീയമല്ല കൂടാതെ ഈ പ്രമാണങ്ങൾ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു ഈ പ്രമാണ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്രമാണം ആവശ്യകതയെ അടിസ്ഥാനമാക്കി ടെസ്റ്റ് കേസുകൾ പോലും എഴുതുന്നു അതിനാൽ ഈ ആവശ്യകതയിലെ ഏത് മാറ്റത്തിനും എല്ലാ രേഖകളിലും മാറ്റങ്ങൾ ആവശ്യമായി വരും അതിനാൽ വാട്ടർഫാൾ മാതൃക ഉപയോഗിക്കുന്നവർ ചെറിയ മാറ്റങ്ങൾ പോലും ചെയ്യാൻ ഉപഭോക്താവിനെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്നു എന്നാൽ ഈ മേഖലയിലെ ഗുരുക്കളിൽ ഒരാളായ ഫ്രെഡറിക് ബ്രൂക്സിന്റെ നിരീക്ഷണം നമുക്ക് നോക്കാം ഒരാൾക്ക് മുൻകൂട്ടി തൃപ്തികരമായ ഒരു സിസ്റ്റം വ്യക്തമാക്കാനും അതിന്റെ നിർമ്മാണത്തിനായി ബിഡ്ഡുകൾ നേടാനും അത് നിർമ്മിച്ച് സ്ഥാപിക്കാനും കഴിയുമെന്ന ധാരണ ഈ അനുമാനം അടിസ്ഥാനപരമായി തെറ്റാണ് കൂടാതെ നിരവധി സോഫ്റ്റ്വെയർ ഏറ്റെടുക്കൽ പ്രശ്നങ്ങളും ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഫ്രെഡറിക് ബ്രൂക്സിന്റെ ചിന്ത വിശദീകരിക്കാൻ പദ്ധതിയുടെ പല പരാജയങ്ങളും പദ്ധതി കാലതാമസവും മുതലായവ വികസനത്തിന്റെ തുടക്കത്തിൽ ആവശ്യകതകൾ നിറവേറ്റുന്നതിന്റെ ഫലമാണെന്ന് അദ്ദേഹത്തിന് തോന്നി പ്രമാണങ്ങൾ ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വികസന വരുമാനവും അടിസ്ഥാനപരമായി തെറ്റാണ് മാത്രമല്ല ഇതിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു വാട്ടർഫാൾ മോഡലിന്റെ ഈ പോരായ്മക്ക് മറുപടിയായി നിർദ്ദേശിച്ച ഒരു മാതൃക ഇൻക്രിമെന്റൽ മാതൃകയാണ് വർദ്ധിച്ചുവരുന്ന മാതൃകക്ക് പിന്നിലെ പ്രധാന ആശയം ലഭിക്കാൻ ഈ മേഖലയുടെ സ്ഥാപകരിലൊരാളായ വിക്ടർ ബാസിലി എന്താണ് പറയുന്നതെന്ന് നോക്കാം സിസ്റ്റത്തിന്റെ മുമ്പത്തെ വർദ്ധനവ് വിതരണം ചെയ്യാവുന്ന പതിപ്പുകളുടെ വികസന സമയത്ത് പഠിച്ച കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അടിസ്ഥാന ആശയം സിസ്റ്റത്തിന്റെ വികാസത്തിൽ നിന്നും ഉപയോഗത്തിൽ നിന്നും പഠനം വരുന്നു സോഫ്റ്റ്വെയർ ആവശ്യകതകളുടെ ഒരു ഉപഗണം ലളിതമായി നടപ്പിലാക്കുന്നതിലൂടെ ആരംഭിച്ച് പതിപ്പുകളുടെ വികാസം പ്രാപിക്കുന്ന ക്രമം ആവർത്തിക്കുന്നു ഓരോ പതിപ്പിലും പുതിയ നിർവ്വഹണപരമായ കഴിവുകൾ ചേർക്കുന്നതിനൊപ്പം ഡിസൈൻ പരിഷ്കാരങ്ങളും വരുത്തുന്നു ഇൻക്രിമെൻറ് മാതൃകയെക്കുറിച്ച് വിക്ടർ ബസിലിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വിശദീകരിക്കാൻ ഇൻക്രിമെന്റിൽ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആദ്യ ഇൻക്രിമെന്റിൽ ചില പ്രധാന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു തുടർന്ന് ഇവ ഫീഡ്ബാക്ക് നൽകുന്ന ഉപഭോക്താവിന് നൽകുകയും ഇത് സിസ്റ്റത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് ഒരു പഠനം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഡെവലപ്പർമാർ പോലും കാതലായ നിർവഹണങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് അവർ പഠിക്കുന്നു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ പരിഷ്ക്കരിച്ച സിസ്റ്റത്തെ ഇതിനെ ആവർത്തനം എന്ന് വിളിക്കുന്നു ആവർത്തനത്തിൽ ഉപഭോക്താവ് പുതിയ ഫീഡ്ബാക്ക് നൽകുമ്പോഴെല്ലാം ഒരേ പ്രവർത്തനം പരിഷ്ക്കരിക്കപ്പെടുന്നു അതേ പ്രവർത്തനം ആവർത്തനപരമായി പരിഷ്ക്കരിക്കപ്പെടുന്നു അതേസമയം തന്നെ പുതിയ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നു ഇവയെ ഇൻക്രിമെന്റുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ മാതൃകയെ ഇൻക്രെമെന്റൽ മോഡൽ വിത്ത് ഇറ്ററേഷൻ എന്ന് വിളിക്കുന്നു ഇവിടെ വർദ്ധനവും കൂടാതെ ആവർത്തന വികസന പ്രവർത്തനങ്ങളോ ഓരോ സമയത്തും പുതിയ ആവർത്തനം പ്രാവർത്തികമാക്കിയാൽ ഒരേ സമയം പ്രവർത്തനങ്ങളോ ഇതിനകം അവർ സ്ഫുടം ചെയ്തു ആ പ്രവർത്തനങ്ങളോ കൊണ്ട് ആവർത്തന അറിയപ്പെടുകയും ചെയ്യുന്നു നടപ്പാക്കുകയും ചെയ്തു എന്ന് വർദ്ധിച്ചുവരുന്നതും ആവർത്തനപരവുമായ വികസനത്തിന്റെ പ്രധാന സവിശേഷതകൾ സിസ്റ്റം നിർമ്മിച്ചത് സിസ്റ്റത്തിന്റെ വർദ്ധനവ് സിസ്റ്റത്തിന്റെ ചെറിയ ഭാഗങ്ങളാണ് ഓരോ പ്രവർത്തനത്തിനും നിരവധി ആവർത്തനങ്ങളുണ്ട് കൂടാതെ ഓരോ തവണയും ഉപഭോക്താവിന് ഒരു വർക്കിംഗ് പ്രോഗ്രാമിന്റെ രൂപത്തിൽ വിതരണം നൽകുമ്പോൾ ഉപഭോക്താവിന് ഉപയോഗിക്കാനും ഫീഡ്ബാക്ക് നൽകാനും കഴിയും ഉപഭോക്താവിന് കൈമാറാവുന്ന ഓരോന്നും മുമ്പത്തെ ആവർത്തനത്തിൽ നൽകിയ ഫീഡ്ബാക്ക് ഉൾപ്പെടുത്തുക മാത്രമല്ല പുതിയ പ്രവർത്തനങ്ങളും ചേർക്കുമായിരുന്നു മാറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നല്ല മാർഗമാണിതെന്ന് എളുപ്പത്തിൽ കാണാനാകുന്നതുപോലെ ഫീഡ്ബാക്കുകളിലേക്ക് ഉപഭോക്താവിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇവ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു ഇൻക്രിമെൻറ് മാതൃക വ്യവസായത്തിൽ ജനപ്രിയമായിത്തീർന്നു യുക്തിസഹമായ ഏകീകൃത പ്രക്രിയ ഒരു ഇൻക്രിമെൻറ് മാതൃകയാണ് അങ്ങേയറ്റത്തെ പ്രോഗ്രാമിംഗ് സമർത്ഥരായ മാതൃകകൾ തുടങ്ങിയവയെല്ലാം വർദ്ധിക്കുന്നു ഉപഭോക്താവിൽ നിന്ന് അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഗം ലഭിക്കുന്നു ഇത് അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് നൽകാം ഓർഗനൈസേഷൻ വികസിപ്പിക്കുന്ന ഓർഗനൈസേഷൻ പ്രധാന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് സംയോജിപ്പിക്കുകയും അധിക പ്രവർത്തനം നടപ്പിലാക്കുകയും അത് നൽകുകയും ചെയ്യുന്നു ഉപഭോക്താവ് വീണ്ടും ഇതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് നൽകുന്നു കൂടാതെ ഫീഡ്ബാക്ക് സംയോജിപ്പിക്കുകയും പുതിയ പ്രവർത്തനം ചേർക്കുകയും ചെയ്യുന്നു ഇതുവഴി സിസ്റ്റം പൂർത്തിയാകുകയും അവസാനം ഡെലിവറി സിസ്റ്റം ഉപഭോക്താവിന്റെ ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്യും കാരണം സിസ്റ്റം ഉപയോഗിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഫീഡ്ബാക്കും സംയോജിപ്പിച്ചിരിക്കുന്നു തുടക്കത്തിൽ ആവശ്യകതകൾ ശേഖരിക്കുകയും ഈ ആവശ്യകതകളെ വർദ്ധിപ്പിക്കുന്ന സവിശേഷതകളായി വിഭജിക്കുകയും ചെയ്താൽ മൊത്തത്തിലുള്ള രൂപകൽപ്പനയുണ്ട് തുടർന്ന് ഓരോ തവണയും ഒരു ഇൻക്രിമെന്റ് വികസിപ്പിച്ചെടുക്കുകയും സാധൂകരിക്കുകയും മുൻ ഇൻക്രിമെന്റുമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്നു സിസ്റ്റം സാധൂകരിക്കുകയും ഉപഭോക്തൃ ഫീഡ്ബാക്കിലേക്ക് കൈമാറുകയും ചെയ്യുന്നു അടുത്ത ഇൻക്രിമെന്റ് വികസിപ്പിച്ചെടുക്കുകയും അന്തിമ സിസ്റ്റം പുതുക്കുന്നതുവരെ ഇൻക്രിമെന്റ് മാതൃക ആവശ്യകതകൾ മുന്നിൽ ശേഖരിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇവ ചെറിയ ഇൻക്രിമെന്റുകളായോ കഷണങ്ങളായോ തിരിച്ചിരിക്കുന്നു സമാനത ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ മാതൃകയിൽ ആവശ്യകതകൾ മുൻകൂട്ടി ശേഖരിക്കുന്നു എന്നതാണ് വ്യത്യാസം എന്നാൽ ഈ ഇൻക്രിമെൻറ് ഉപഭോക്തൃ ഫീഡ്ബാക്ക് ഓരോന്നും എടുക്കുകയും ഈ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു എന്നതാണ് വ്യത്യാസം അതേസമയം ഇൻക്രിമെൻറൽ പല പതിപ്പുകളിൽ അവിടെ ഇരിക്കുന്നു ഒരു വാട്ടർഫാൾ മോഡൽ അവിടെ ഒരൊറ്റ റിലീസിന് ആദ്യം എല്ലാ പ്രവർത്തനവും ആവശ്യങ്ങൾ ഒരൊറ്റ റിലീസ് ശേഖരിച്ച രൂപകൽപ്പന കാലഹരണപ്പെട്ട പരീക്ഷിച്ചു ഉപഭോക്തൃ ലഭിച്ച ഓരോ റിലീസിനും ശേഷം ഉപഭോക്തൃ ഫീഡ്ബാക്ക് എടുക്കുകയും ഇതിനകം വിതരണം ചെയ്ത പ്രവർത്തനം ഉപഭോക്താവിന്റെ ആവശ്യകതകൾക്കായി വീണ്ടും മാറ്റുകയും ചെയ്യുന്നു ആദ്യ ഇൻക്രിമെന്റ് സാധാരണ കാതലായ നിർവഹണങ്ങളാണ് തുടർന്ന് തുടർച്ചയായുള്ള ഇൻക്രിമെന്റുകൾ നിലവിലുള്ള പ്രവർത്തനത്തെ പരിഷ്കരിക്കുക മാത്രമല്ല പ്രവർത്തനം ചേർക്കുകയോ ശരിയാക്കുകയോ ചെയ്യുക അവസാന ഇൻക്രിമെന്റ് പൂർണ്ണ ഉൽപ്പന്നമാണ് ഇതിനെ ആവർത്തനത്തോടുകൂടിയ ഇൻക്രിമെന്റൽ മോഡൽ എന്ന് വിളിക്കുന്നു എന്നാൽ ആർക്കെങ്കിലും പൂർണ്ണമായും ഇൻക്രിമെന്റൽ മാതൃകയെക്കുറിച്ച് ചിന്തിക്കാനാകും അവിടെ ആവർത്തനം ഇല്ലാത്ത സിസ്റ്റം ചെറിയ ഇൻക്രിമെന്റുകളിൽ വികസിപ്പിക്കുകയും ഉപഭോക്താവിന് നൽകുകയും ചെയ്യുന്നു എന്നാൽ ഉപഭോക്തൃ ഫീഡ്ബാക്ക് ശരിക്കും എടുക്കുന്നില്ല നിലവിലുള്ള പ്രവർത്തനം മാറ്റുക ആവർത്തനമില്ല പൂർണ്ണമായും ഇൻക്രിമെൻറ് മാതൃക സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റുകളിൽ വികസിപ്പിക്കുകയും ഉപഭോക്താവിന് കൈമാറുകയും ചെയ്യുന്നു പക്ഷേ പ്രവർത്തനങ്ങൾ കൈമാറിയാൽ ഇവ മാറ്റില്ല പക്ഷേ ആവർത്തനത്തോടുകൂടിയ ഇൻക്രിമെൻറ് മാതൃകയിൽ പ്രവർത്തനങ്ങൾ ഇൻക്രിമെന്റിൽ ഉപഭോക്താവിന് കൈമാറുന്നു എന്നാൽ ഓരോ നിർവ്വഹണ പ്രവർത്തനവും വിതരണം ചെയ്തതിനുശേഷം ഉപഭോക്തൃ ഫീഡ്ബാക്ക് എടുക്കുകയും അവ അടുത്ത ആവർത്തനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു തീർച്ചയായും ഓരോ ഇൻക്രിമെന്റും ആവർത്തനവും ചെറുതാണ് എന്നത് ഒരു പ്രത്യേക ജീവിത ചക്രമുള്ള ഒരു തരം മിനി പ്രോജക്റ്റാണ് ഉദാഹരണത്തിന് ഓരോ ചെറിയ ഇൻക്രിമെന്റും ഒരു വെള്ളച്ചാട്ട മാതൃകയായി ഉപയോഗിക്കാം ഇത് ഒരു ഡയഗ്രമാറ്റിക് പ്രാതിനിധ്യമാണ് പ്രാരംഭ ആവശ്യകതകൾ ഇൻക്രിമെന്റ് ഇൻക്രിമെന്റ് 1 2 3 ആയി വിഭജിച്ചിരിക്കുന്നു ഇൻക്രിമെന്റ് 1 വികസിപ്പിച്ചെടുത്തു ഇൻക്രിമെന്റ് 2 വികസിപ്പിച്ചെടുക്കുന്നു അതിനാൽ ഇത് ഉപഭോക്തൃ ഫീഡ്ബാക്ക് സ്ഥാപിച്ചഒരു വാട്ടർഫാൾ മോഡൽ ഡിസൈൻ പോലെയാണ് ഇൻക്രിമെന്റ് 1 ആദ്യം വികസിപ്പിച്ചെടുത്തു തുടർന്ന് ഇൻക്രിമെന്റ് 2 വികസിപ്പിച്ചെടുത്തു തുടർന്ന് ഇൻക്രിമെന്റ് 3 വികസിപ്പിച്ചെടുക്കുന്നു ഈ വികസന മാതൃകയെ നമ്മൾ ഡയഗ്രമാറ്റിക്കായി പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ എല്ലാ ഉപഭോക്തൃ ആവശ്യങ്ങളും രേഖപ്പെടുത്തുകയും അവ രേഖപ്പെടുത്തുകയും തുടർന്ന് ഇൻക്രിമെന്റുകളും ഇൻക്രിമെന്റൽ വിതരണ രൂപീകരണം ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് ഇൻക്രിമെന്റ് രൂപകൽപ്പന ചെയ്യുക ഇൻക്രിമെന്റ് നിർമ്മിക്കുക ഇൻക്രിമെന്റ് നടപ്പിലാക്കുക തുടർന്ന് ഇൻക്രിമെന്റ് മൂല്യനിർണ്ണയത്തിനായി ഉപഭോക്താവിന് നൽകുക തുടർന്ന് അത് ഒരു ഫീഡ്ബാക്കായി ഉപയോഗിക്കുകയും അടുത്ത ഇൻക്രിമെന്റ് എടുക്കുകയും ചെയ്യുക അടുത്ത ആവർത്തനത്തിൽ ഡെലിവറിക്ക് ഇൻക്രിമെന്റിൽ ഒന്ന് ഡിസൈനർ തിരഞ്ഞെടുക്കേണ്ട നിരവധി ഇൻക്രിമെന്റുകൾ ഉള്ളതിനാൽ ഏത് ഇൻക്രിമെന്റാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ഇതൊരു പ്രധാന പ്രശ്നമാണ് സിസ്റ്റം പ്രവർത്തിക്കാതെ തന്നെ ചില ഭാഗങ്ങൾ മറ്റ് ഭാഗങ്ങൾക്ക് മുൻകൂട്ടി ആവശ്യമായി വരും ഉദാഹരണത്തിന് കസ്റ്റമർ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതുവരെ ഉപഭോക്തൃ ബില്ലിംഗ് ആദ്യം ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് ഉപഭോക്തൃ രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കണം തുടർന്ന് ഉപഭോക്തൃ ബില്ലിംഗ് സോഫ്റ്റ്വെയർ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്നാൽ പല വർധനവും ഒരു ക്രമവും ഇല്ലാതെ തന്നെ ഇപ്പോൾ ചെലവ് അനുപാതത്തിന് ക്രമ മൂല്യമില്ലാത്ത ഈ വർദ്ധനവുകൾ ഉപയോഗിക്കാം ഇതിനെ നമ്മൾ വി ബൈ സി അനുപാതം എന്ന് വിളിക്കുന്നു ഇവിടെ വി എന്നത് ഉപഭോക്താവിന് 1 മുതൽ 10 വരെ സ്കെയിലിൽ ഗ്രേഡുചെയ്യുകയും സി ഒരു സ്കോർ ആകുകയും ചെയ്യുന്നു 0 മുതൽ 10 വരെ ഡവലപ്പർമാർക്കുള്ള ചെലവ് പ്രതിനിധീകരിക്കുന്നു ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അടുത്ത വർധനവിന്റെ വർദ്ധനവ് ഒരു ഘട്ടത്തിൽ പറയട്ടെ ലാഭം നടപ്പിലാക്കാൻ ലാഭ റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുന്നതിനും ഓൺലൈൻ ഡാറ്റാബേസ് നടപ്പിലാക്കുന്നതിനും താൽക്കാലിക അന്വേഷണം നടപ്പിലാക്കുന്നതിനും വാങ്ങൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ലാഭത്തിനനുസരിച്ചുള്ള കൂലി നടപ്പാക്കുന്നതിനും വികസന ടീമിന് വഴക്കമുണ്ട് മാനേജർമാർക്ക് ലാഭം അടിസ്ഥാനമാക്കിയുള്ള വേതനം ഡവലപ്പർമാർക്ക് തിരഞ്ഞെടുക്കൽ ഉണ്ടെന്നും ഈ മൂല്യങ്ങൾ നൽകിയിട്ടുള്ള ഈ വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ മൂല്യത്തെക്കുറിച്ചുള്ള ഉപഭോക്തൃ ഫീഡ്ബാക്കിൽ നിന്നുള്ള അഞ്ച് പ്രവർത്തനങ്ങളാണിവ ഓൺലൈൻ ഡാറ്റാബേസ് അവരുടെ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് ലാഭ റിപ്പോർട്ട് 9 താൽക്കാലിക അന്വേഷണം 5 വാങ്ങൽ പ്ലാൻ 5 മാനേജർക്ക് ലാഭം അടിസ്ഥാനമാക്കിയുള്ള വേതനം 9 ഇത് 1 മുതൽ 10 വരെ റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ വികസന ടീം വികസനത്തിന് ഏറ്റവും കുറഞ്ഞ ചിലവ് ഞാൻ കണ്ടെത്തി മാനേജർക്ക് ലാഭം അടിസ്ഥാനമാക്കിയുള്ള വേതനം ലാഭ റിപ്പോർട്ടുകൾ 2 വാങ്ങൽ പദ്ധതി 4 അഡ്ഹോക് അന്വേഷണം 5 ഓൺലൈൻ ഡാറ്റാബേസിൽ നടപ്പിലാക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് തുടർന്ന് വി ബൈ സി അനുപാതം കണക്കാക്കുമ്പോൾ 9 സ്കെയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു മുതൽ 1 വരെ 0 1 0 അതിനാൽ അടുത്ത വർദ്ധനവിനായി ഇത് സി അനുപാതത്തിൽ ഉയർന്ന V ആയി തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് കൂടാതെ ലാഭ റിപ്പോർട്ട് തിരഞ്ഞെടുക്കണം മൂന്നാമത്തേത് വാങ്ങൽ പദ്ധതികളും നാലാമത്തേത് അഡ്ഹോക് മുന്നോട്ടുള്ളത് താൽക്കാലിക അന്വേഷണവും അവസാനത്തേത് ഓൺലൈൻ ഡാറ്റാബേസും ആയിരിക്കണം ഇൻക്രിമെന്റൽ മോഡൽ വളരെ ജനപ്രിയമായിത്തീർന്നിരിക്കുന്നു ഇത് ഉപയോഗിക്കുന്ന എല്ലാ മാതൃകയുടെയും ഭാഗമാണ് അവ ഇൻക്രിമെൻറ് മാതൃകയുടെ ഡെറിവേറ്റീവുകളാണ് ഒരു പ്രധാന ഡെറിവേറ്റീവ് RAD മാതൃക RAD എന്നാൽ റാപിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ് ഇതിനെ ചിലപ്പോൾ ദ്രുത പ്രോട്ടോടൈപ്പിംഗ് മാതൃക എന്ന് വിളിക്കുന്നു ഇവിടെ മാതൃകയുടെ പ്രധാന ലക്ഷ്യം സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിന് എടുക്കുന്ന സമയവും ചെലവും കുറയ്ക്കുക എന്നതാണ് ഏതെങ്കിലും വലിയ നിക്ഷേപം നടത്തുന്നതിന് മുമ്പായി മാറ്റ അഭ്യർത്ഥനകൾ എത്രയും വേഗം ഉൾക്കൊള്ളാൻ സൌകര്യമൊരുക്കുക ഇവിടെ ഞങ്ങൾ വർദ്ധിച്ച മോഡലാണ് ഇൻക്രിമെന്റുകൾ തീരുമാനിക്കുന്നത് കൂടാതെ ഹ്രസ്വകാല പ്ലാനുകൾ മാത്രമേ നിർമ്മിക്കൂ നിലവിലുള്ള കോഡിന്റെ കനത്ത ഉപയോഗവും വാട്ടർഫാൾ മോഡലിന് വിപരീതമായി ഈ മോഡൽ വളരെ കാര്യക്ഷമമാണ് മാറ്റങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാരണം വഴക്കം ഇതിൽ ഉൾപ്പെടുത്താംഹ്രസ്വകാല പദ്ധതികൾ മാത്രമേ നിർമ്മിക്കുകയുള്ളൂ ഏത് മാറ്റത്തിനും പ്രോജക്റ്റ് മാനേജ്മെന്റ് പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്ന എല്ലാ പദ്ധതികളും മാറ്റേണ്ട ആവശ്യമില്ല ടെസ്റ്റ് പ്ലാൻ തുടങ്ങിയവ ഒരു സമയം ഒരു ഇൻക്രിമെന്റിനായി പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഇൻക്രിമെന്റിനെ ടൈം ബോക്സ് എന്ന് വിളിക്കുന്നു കൂടാതെ ഓരോ വർധനവും വിതരണം ചെയ്ത ശേഷം സിസ്റ്റമോ അപ്ലിക്കേഷനുകളോ കൂടുതൽ പൂർണ്ണമാകും ഓരോ ആവർത്തനത്തിലും സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആദ്യം വികസിപ്പിച്ചെടുക്കുന്നത് ഉപഭോക്താവിന് പരിണാമത്തിനായി നൽകുന്നു തുടർന്ന് ഉപഭോക്തൃഅടിസ്ഥാനമാക്കി ഈ പ്രോട്ടോടൈപ്പ് പരിഷ്കരിക്കുന്നു ഫീഡ്ബാക്കിനെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാതൃകയിൽ പ്രോട്ടോടൈപ്പ് തന്നെ റാഡ് മാതൃക പരിഷ്കരിക്കപ്പെടുന്നു പ്രോട്ടോടൈപ്പ് തന്നെ യഥാർത്ഥ സോഫ്റ്റ്വെയറായി പരിഷ്കരിക്കപ്പെടുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പ്രോട്ടോടൈപ്പിംഗ് മോഡലിൽ വെള്ളച്ചാട്ടത്തിന്റെ മോഡലിന്റെ ഡെറിവേറ്റീവ് ആണ് പ്രോജക്റ്റിന്റെ ആരംഭത്തിൽ ഉപഭോക്തൃ ഫീഡ്ബാക്ക് ലഭിക്കുന്നതിന് പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നു തുടർന്ന് പ്രോട്ടോടൈപ്പ് വലിച്ചെറിയുകയും സോഫ്റ്റ്വെയർ പുതുതായി വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ റാഡ് മാതൃക ഉപഭോക്തൃ ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കി പ്രോട്ടോടൈപ്പ് പരിഷ്ക്കരിക്കുന്നു റാഡ് മാതൃക വേഗതയേറിയ വികസനം കൈവരിക്കുന്നു പ്രത്യേക ഉപകരണങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു ഉപകരണങ്ങൾ വലിച്ചിടൽ പോലുള്ള വിഷ്വൽ ശൈലിയിലുള്ള വികസനത്തെ പിന്തുണയ്ക്കുന്നു പുനരുപയോഗിക്കാൻ കഴിയുന്ന ഘടകങ്ങളുടെ ഉപയോഗവും സ്റ്റാൻഡേർഡ് എപിഐകളുടെ ഉപയോഗവും സോഫ്റ്റ്വെയർ വേഗത്തിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ റാഡിന്റെ മാതൃകക്ക് അനുയോജ്യമായ സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകൾ നോക്കാം പ്രകടനവും വിശ്വാസ്യതയും നിർണായകമല്ലാത്ത പ്രോജക്ടുകൾ എന്നാൽ ഇവ വളരെ വേഗത്തിൽ വികസിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ സിസ്റ്റത്തെ നിരവധി സ്വതന്ത്ര മോഡലുകളായി വിഭജിക്കാം സിസ്റ്റം വളരെ തുച്ഛമാണെങ്കിൽ ഞങ്ങൾക്ക് നിരവധി ഇൻക്രിമെന്റുകൾ ഉണ്ടാകാൻ കഴിയില്ല വ്യക്തമായും റാഡ് മാതൃക അനുയോജ്യമല്ല കൂടാതെ കുറച്ച് ലോഗിൻ ഘടകങ്ങൾ ലഭ്യമാകുമ്പോൾ റാഡ് മാതൃകക്ക് അനുയോജ്യമല്ല ഉയർന്ന പ്രകടനമോ വിശ്വാസ്യതയോ ആവശ്യമാണ് റാഡ് മാതൃകക്ക് നൽകാത്തതിന്റെ കാരണം ഉയർന്ന പ്രകടനമോ വിശ്വാസ്യതയോ പ്രോട്ടോടൈപ്പ് തന്നെ യഥാർത്ഥ സോഫ്റ്റ്വെയറിലേക്ക് പരിഷ്കരിക്കപ്പെടുന്നു എന്നതാണ് ഒരു പുതിയ സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്ത് പരീക്ഷിച്ച ഒരു വാട്ടർഫാൾ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി റാഡ് മാതൃക കുറഞ്ഞ വിശ്വാസ്യതയും പ്രകടനവും നൽകും സമാന ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണനയില്ലെങ്കിൽ റാഡ് മാതൃക അനുയോജ്യമല്ല അത് പുതിയ തരം സോഫ്റ്റ്വെയറുകളെ വെല്ലുവിളിക്കുന്നു വ്യക്തമായും പ്ലഗിനുകളായി ഉപയോഗിക്കാൻ ഘടകങ്ങളൊന്നും ലഭ്യമല്ല മോഡുലറൈസ്ഡ് ചെയ്യാൻ കഴിയാത്ത സിസ്റ്റങ്ങൾ റാഡ് അനുയോജ്യമല്ല റാഡ് മാതൃക ഓരോ തവണ ഒരു പ്രോട്ടോടൈപ്പ് നിര്മ്മിക്കുന്നുണ്ട് വിലയിരുത്തൽ ഉപഭോക്തൃ നൽകുന്നു ഉപഭോക്തൃ വിലയിരുത്തൽ അടിസ്ഥാനമാക്കി പ്രോട്ടോടൈപ്പ് മാറുന്നു ഉപഭോക്തൃ തൃപ്തനാകും നേരിടുമ്പോഴാണ് അല്ലതാനും പ്രോട്ടോടൈപ്പ് സോഫ്റ്റ്വെയർ ഭാഗമായി മാറുന്നു ആണ് വാട്ടർഫാൾ മാതൃകയിൽ നിന്നുള്ള പ്രോട്ടോടൈപ്പിംഗ് മാതൃകയിൽ വികസിപ്പിച്ച പ്രോട്ടോടൈപ്പ് പ്രാഥമികമായി ഉപഭോക്തൃ ഫീഡ്ബാക്ക് നേടുന്നതിനും സാങ്കേതിക പ്രശ്നങ്ങളായ പരിഹാരത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നേടുന്നതിനും ഉപയോഗിക്കുന്നു അതിനാൽ വ്യത്യസ്ത ഡിസൈൻ ഇതരമാർഗ്ഗങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന പ്രോട്ടോടൈപ്പിംഗ് മാതൃക ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപഭോക്തൃ ഫീഡ്ബാക്ക് നേടാനാകും മാത്രമല്ല വികസിപ്പിച്ച പ്രോട്ടോടൈപ്പ് സാധാരണയായി വലിച്ചെറിയപ്പെടും പക്ഷേ റാഡ്മാതൃകയിൽ അല്ല റാഡ് മാതൃകയിൽ മെച്ചപ്പെടുത്തൽ പരിഷ്കരണത്തിന് ശേഷമുള്ള പ്രോട്ടോടൈപ്പ് അന്തിമ സോഫ്റ്റ്വെയറായി മാറുന്നു മറ്റൊരു പ്രധാന വികസന മോഡൽ എവൊല്യൂഷനറി മോഡൽ വിത്ത് ഇറ്ററേഷൻ ഞങ്ങൾ ഇൻക്രെമെന്റൽ മോഡൽ വിത്ത് ഇറ്ററേഷൻ കണ്ടിരുന്നു അത് തീർച്ചയായും പ്രധാനവും വ്യവസായമേഖലയിൽ ഉപയോഗിക്കുന്നു പല വികസന മാതൃകകൾ ഭാഗമായി മാറിയിരിക്കുന്നു എന്നാൽ വന്ന മറ്റൊരു ആശയം എവൊല്യൂഷനറി മോഡൽ വിത്ത് ഇറ്ററേഷൻ മാതൃകയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ മോഡലിനെ പരിശോധിക്കും കൂടാതെ ആവർത്തനങ്ങളോടുകൂടിയ വർദ്ധിച്ചുവരുന്നതും പരിണാമപരവുമായ മാതൃകയുടെ സവിശേഷതകളുള്ള അജൈൽ മാതൃകകളിൽ ഇപ്പോഴത്തെ മാതൃക വളരെ പ്രചാരത്തിലുണ്ടെന്ന് നമ്മൾ കാണും നമ്മൾ ഇവിടെ നിർത്തി അടുത്ത പ്രഭാഷണത്തിൽ തുടരും